അതിനാൽ നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നത് FDTD യിലേക്ക് എങ്ങനെയാണ് ഉറവിടങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും വൈദ്യുത സ്രോതസ്സുകൾ എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെക്കുറിച്ചും ആയിരുന്നു വൈദ്യുത സ്രോതസ്സുകൾ എന്ന ഈ പദം അവതരിപ്പിച്ചുകൊണ്ട് FDTD യിൽ എങ്ങനെ നേരിട്ട് നടപ്പിലാക്കാം എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം വൈദ്യുത ഉറവിടത്തിൻറെ വിതരണശേഷിയിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളും കൂടാതെ പരമാവധി വിതരണശേഷി എങ്ങനെയാണ് സമയ ഘട്ടവുമായി പരോക്ഷമായി ബന്ധപ്പെടുന്നതെന്നും നമ്മൾ കണ്ടു അതിനാൽ കുറന്റ് പാരാമീറ്ററിൽ നിന്നുള്ള സ്പേസ് സ്റ്റെപ്പും നമ്മൾ പരിഗണിച്ചു അതിനാൽ നേരിട്ടുള്ള ഉറവിടങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പരോക്ഷമായ ഉറവിടങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ നമ്മൾ കാണും സ്കാറ്ററിംഗ് പ്രശ്നങ്ങളിൽ ഇതാണ് സംഭവിക്കുന്നത് സ്കാറ്ററിംഗ് പ്രശ്നത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ഉറവിടം വളരെ അകലെയാണ് അതിനാൽ എനിക്ക് ഇവിടെ ഒരു J പദം ഉൾപ്പെടുത്താൻ കഴിയില്ല അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമുമ്പ് എന്താണ് വഴി എന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരു സ്കാറ്ററിംഗ് പ്രശ്നത്തിൽ ഞാൻ എങ്ങനെ ഒരു ഉറവിടം ഉൾപ്പെടുത്തും E ഇൻസിഡൻറ് അത് E ഇൻസിഡൻ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും വരണം പക്ഷേ E ഇൻസിഡൻ്റിൽ നിന്ന് അത് എങ്ങനെ വരും പതന വൈദ്യുത മണ്ഡലത്തിന്റെ മൂല്യം സ്വമേധയാ സജ്ജമാക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ FDTD അപ്ഡേറ്റ് സമവാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് എന്നാൽ dBdt ആണ് എന്നാൽ dDdt ആണ് നിങ്ങൾക്ക് ആകെ മണ്ഡലം എന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പതന മണ്ഡലം എവിടെയാണ് അവതരിപ്പിക്കുക ഉദാഹരണമായി നമ്മൾ കണ്ട അതിർത്തി വ്യവസ്ഥകൾ ABC അല്ലെങ്കിൽ PML അതിനാൽ പതന മണ്ഡലം അവതരിപ്പിക്കാനുള്ള സാധ്യത എവിടെയാണ് നമ്മൾ വോളിയം ഇന്റഗ്രൽ ചെയ്തത് പോലെ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും വസ്തു ഉള്ളതും ഇല്ലാത്തതും അല്ലാതെ വേറെ എന്തെങ്കിലും 2 കുറയ്ക്കുക വേറെന്തെങ്കിലും അതിർത്തിയിൽ അതിനാൽ അതെ വസ്തുവിനും സ്വതന്ത്ര പ്രദേശത്തിനും ഇടയിലുള്ള അതിർത്തിയിൽ ഒരുപക്ഷേ എനിക്ക് ഇത് ഉൾപ്പെടുത്താൻ കഴിയുമെന്നതാണ് സൂചന FEM ൽ ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടതാണ് അതിനാൽ ആ രീതി എന്താണ് അതിനെ ആകെയുള്ള മണ്ഡലം എന്നും സ്കാറ്ററിംഗ് ഫീൽഡ് ഫോർമുലേഷൻ എന്നും വിളിക്കുന്നു അതിനാൽ നമ്മൾ എടുക്കുന്ന ദിശയായിരിക്കും അത് അതിനാൽ സ്കാറ്ററിംഗ് പ്രശ്നത്തിൽ J പദം ഇല്ലെന്ന് വ്യക്തമാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് എന്റെ വൈദ്യുത മണ്ഡലം ആണെന്ന് എഴുതാൻ കഴിയും അതിനാൽ നമുക്ക് ഇവിടെ കണക്കുകൂട്ടൽ ഡൊമെയ്ൻ വരയ്ക്കാം അതിനാൽ ഇത് എന്റെ വസ്തുവാണെന്ന് നമുക്ക് പറയാംഒരു പതന മണ്ഡലം അതിൽ പതിക്കുന്നു അപ്പോൾ സ്കാറ്ററിംഗ് ഫീൽഡ് ലഭിക്കുന്നു ഇത് ആകെ ചിതറിക്കിടക്കുന്നു ഇപ്പോൾ വസ്തുവിനെ പരിഗണിക്കുന്നതിനു മുൻപ് നമുക്ക് ശൂന്യത നോക്കാം പതന മണ്ഡലം ശൂന്യതയിലാണെന്ന് നമുക്ക് അനുമാനിക്കാം ശൂന്യതയിൽ പതന മണ്ഡലം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ അതെ മൊത്തം ഫീൽഡ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ അതിനാൽ സ്കാറ്ററിംഗ് ഫീൽഡ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ നമുക്ക് ഈ മേഖലയെ I എന്ന് വിളിക്കാം നമുക്ക് ഈ പ്രദേശം II എന്ന് വിളിക്കാം അതിനാൽ മേഖല I ലെ സ്കാറ്ററിംഗ് ഫീൽഡ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ സ്കാറ്ററിംഗ് ഫീൽഡിലേക്ക് എനിക്ക് FDTD അപ്ഡേറ്റ് സമവാക്യങ്ങൾ പ്രയോഗിക്കാൻ കഴിയും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എനിക്ക് FDTD പ്രയോഗിക്കാൻ കഴിയും മേഖല II ൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണ് ആകെ ഫീൽഡ് മാത്രം അതിനാൽ എന്റെ വേരിയബിളിനെ ശൂന്യതയിൽ E സ്കാറ്റേർഡുംവസ്തുവിൽ E ടോട്ടലും ആയി ഞാൻ മാറ്റിയാൽ വേരിയബിളുകൾക്കിടയിൽ ഒരു വിച്ഛേദമുണ്ടാകും എന്നാണ് മേഖല I ഉം II ഉം ഒന്നിച്ച് സൂചിപ്പിക്കുന്നത് അവിടെ ഭൌതിക വിച്ഛേദം ഉണ്ടായിരിക്കുകയില്ല ടാൻജെൻഷ്യൽ ഫീൽഡ് തീർച്ചയായും തൃപ്തിപ്പെടും പക്ഷേ വേരിയബിളുകളിൽ ഒരു അസ്ഥിരതയുണ്ടായിരിക്കും ഞാൻ ഇതിനെ സ്കാറ്റേർഡ് ഫീൽഡും ഇവിടെ മൊത്തം ഫീൽഡും ആയി അനുമാനിച്ചാൽ അതിനർത്ഥം വേരിയബിളുകളിൽ ഒരു വിച്ഛേദം ഉണ്ട് ആ വിച്ഛേദത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും പതനം തന്നെയല്ലേ ഇൻസിഡന്റ് ഫീൽഡ് എന്നാൽ E ഇൻസിഡന്റ് മൂലമുണ്ടാകുന്ന ഇന്റർഫേസിലെ വിച്ഛേദത്തിന്റെ വ്യാപ്തിയാണ് അതിനാൽ നമ്മുടെ ഉറവിടം E ഇൻസിഡൻറിനെ FDTD യിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് നേടുന്ന രീതിയാണ് ഇത് ഉദാഹരണത്തിന് നമ്മൾ 2D യിലെ നമ്മുടെ TE സമവാക്യങ്ങൾ TE ധ്രുവീകരണം എന്നിവ എടുത്താൽ TE ൽ നമ്മുടെ വേരിയബിളുകൾ എന്തായിരുന്നു അല്ലേ അതിനാൽ എനിക്ക് എഴുതാവുന്ന 3 അപ്ഡേറ്റ് സമവാക്യങ്ങൾ ഇവയാണ്

അതിനാൽ ഇവയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ട അപ്ഡേറ്റ് സമവാക്യങ്ങൾ ഞാൻ എടുക്കേണ്ട രണ്ട് തരത്തിലുള്ള യീ സെല്ലുകൾ എന്തായിരിക്കും ഒന്ന് ഞാൻ അർത്ഥമാക്കുന്നത് ഇന്റർഫേസ് അതായത് ഒരു യീ സെൽ മുകളിലും ഒരു യീ സെൽ താഴെയും അതിനാൽ അതാണ് നമ്മൾ ചെയ്യുന്നത് അതിനാൽ നമുക്ക് ഇത് ഇന്റർഫേസ് ആയി എടുക്കാം ഉദാഹരണത്തിന് ഇതാണ് എന്റെ പ്രദേശം II ഇതാണ് എന്റെ പ്രദേശം I മേഖല I ൽ എന്റെ വേരിയബിൾ എന്താണ് എന്റെ വേരിയബിൾ മൊത്തം സ്കാറ്റേർഡ് അല്ലെങ്കിൽ പതിച്ചത് ഇരിക്കും അതിനാൽ ഇത് സ്കാറ്റേർഡ് ഇത് ആകെയുള്ളതാണ് അതിനാൽ ഇവയാണ് എന്റെ യീ സെല്ലുകൾ ഞാൻ സാധാരണയായി എവിടെയാണ് രേഖപ്പെടുത്തുന്നത് സെല്ലുകളുടെ മധ്യഭാഗത്ത് അല്ലേ അതിനാൽ എന്റെ ഇവിടെയാണ് എന്നിട്ട് എനിക്ക് അതിർത്തിയിലായി ഉണ്ട് അതിൻറെ മധ്യഭാഗത്ത് ഒരു ഉണ്ട് അപ്പോൾ ഞാൻ ഈ പോയിന്റ് i j ആയി എടുക്കും എന്നാൽ നമുക്ക് ഈ അപ്ഡേറ്റ് സമവാക്യങ്ങൾ എടുത്ത് അവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ വേരിയബിളുകൾ അതു തന്നെയായിരിക്കുമോ അതിനാൽ വേരിയബിളുകൾ അതുതന്നെ ആകുകയില്ല ഞാൻ ഈ രണ്ട് യീ സെല്ലുകൾ വരച്ചു അവ ഇന്റർഫേസിൽ ഒന്നിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് മേഖല I ലെ എന്റെ വേരിയബിളുകൾ സ്കാറ്റേർഡ് ഫീൽഡ് ആണ് മേഖല II ൽ മൊത്തം തം ഫീൽഡ് ആണ് പക്ഷേ എന്റെ സമവാക്യങ്ങളിൽ എനിക്ക് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ അതിനാൽ അതെ അതിനാൽ ഇത് എങ്ങനെ ചെയ്തുവെന്ന് നമ്മൾ കൃത്യമായി കാണുന്നതാണ് അതിനാൽ നമുക്ക് ആദ്യ സമവാക്യം നോക്കാം അതിനാൽ അത് എനിക്ക് നൽകുന്നു യുടെ സമയത്തിന്റെയ മാറ്റത്തിൻറെ നിരക്കും ൻറെ സ്ഥലത്തിന്റെ മാറ്റത്തിൻറെ നിരക്കും നൽകുന്നു അതിനാൽ അതാണ് എനിക്ക് വേണ്ടത് അതിനാൽ ആദ്യ സമവാക്യം നമുക്ക് ഇവിടെ എഴുതാം അതിനാൽ സമവാക്യം 1 നമ്മളിപ്പോൾ അപ്ഡേറ്റ് സമവാക്യങ്ങൾ എഴുതാൻ പോകുന്നു അപ്പോൾ സമവാക്യം 1 ഇതാണ് ഇവിടെ എന്തെങ്കിലും മാറിയോ ഇവിടെ ഒന്നും മാറിയിട്ടില്ല കാരണം എല്ലാം ശരിയാണ് അതിർത്തിയുമായി ഒത്തുചേർന്നിട്ടില്ല Hs കൾ അതിരുകൾക്ക് മുകളിലാണ് കൾ അതിരുകൾക്ക് മുകളിലാണ് അതിനാൽ മാറ്റമില്ലാതെ ഇരിക്കുന്നു നമ്മൾ വീണ്ടും s സെല്ലിൽ എഴുതുന്ന സമവാക്യം 2 ലേക്ക് പോകുന്നു അതിനാൽ സമവാക്യം 2 അത് അൽപ്പം രസകരമായിരിക്കും കാരണം എനിക്ക് y യുമായി ബന്ധപ്പെട്ട് H ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് അതിനാൽ എനിക്ക് അതിർത്തിയെ മറികടക്കണം ഇപ്പോൾ ഇടതുവശം കൂടുതൽ എളുപ്പമാകും സ്കാറ്റേർഡ് ഫീൽഡ് s സെല്ലിൽ ശേഖരിക്കുന്നില്ല അതെ നമ്മൾ അതിലേക്ക് മാത്രം പ്രയോഗിക്കുന്നു പക്ഷേ കാര്യമെന്താണ് എന്നാൽ എനിക്ക് ഓരോ മൂലയിലും ഒരു വേരിയബിൾ മാത്രമേ സംഭരിക്കാനാകൂ ഒരു മൂലക്ക് എനിക്ക് രണ്ട് വേരിയബിളുകൾ സംഭരിക്കേണ്ടതില്ല വിദ്യാർത്ഥി തീരുമാനിക്കുക എനിക്ക് ഏതാണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും അത് ഒരു പ്രശ്നമല്ല ഈ പൊതുവായ വേരിയബിൾ സ്കാറ്റേർഡ് ഫീൽഡിനോ അല്ലെങ്കിൽ മൊത്തം ഫീൽഡിനോ യോജിക്കുന്നതാണോ എന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കുന്നത് എന്താണോ അത് സ്ഥിരം ആയിരിക്കണം അത്ര മാത്രമേയുള്ളൂ നമുക്ക് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എഴുതാം മേഖല I ൽ ഞാൻ സംഭരിക്കുന്നു പക്ഷേ ഇല്ല നിങ്ങൾ പറയുന്ന ഈ പദം നമുക്ക് മാറ്റി വയ്ക്കാമോ ഇല്ല എന്നാൽ ആദ്യ പദം മുകളിലെ സെല്ലുമായി യോജിക്കുന്നു അവിടെ വേരിയബിൾ s ആണ് താഴത്തെ വേരിയബിൾ s ആകാൻ കഴിയില്ല കാരണം ഇത് പ്രദേശം II ആണ് സ്കാറ്റേർഡ് ഫീൽഡ് ഒരു വേരിയബിൾ അല്ലാത്തതാണ് മേഖല II ശരിയാണ് അതിനാൽ ഞാൻ ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കണം നിങ്ങൾ പറയുന്ന കാര്യം എന്താണ് ഈ രണ്ടാം തവണയും ഞാൻ അത് പതനവും സ്കാറ്റേർഡും ആയി മാറ്റി നൽകണോ ഇല്ല കാരണം ഞാൻ ഈ മേഖല ഉണ്ടാക്കുന്നത് ഈ രണ്ട് പരിഗണനകൾ കൊണ്ടാണ് മേഖല I ൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ രണ്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിനാൽ എനിക്ക് മൊത്തം ഫീൽഡ് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ഫീൽഡ് തിരഞ്ഞെടുക്കാനാകും എന്നാൽ പ്രദേശം II ൽ ഞാൻ എന്റെ വേരിയബിൾ സ്കാറ്റേർഡ് ഫീൽഡ് ഉണ്ടാക്കരുത് കാരണം നിങ്ങളുടെ അപ്ഡേറ്റ് സമവാക്യങ്ങൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യം കൂടാതെ സ്കാറ്റേർഡ് ഫീൽഡ് മേഖല II ൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ അനുസരിക്കുന്നില്ല അതിനാൽ സ്കാറ്റേർഡ് ഫീൽഡിനായി അപ്ഡേറ്റ് സമവാക്യങ്ങൾ എഴുതാൻ ഞാൻ ശ്രമിക്കേണ്ടതില്ല അതെ കാരണം ഇത് ഭൌതികമായി സാധുതയുള്ള വേരിയബിൾ അല്ല അതിനാൽ ഞാൻ ഇവിടെ മൊത്തം സൂക്ഷിക്കും ഇത് മുമ്പത്തെപ്പോലെ ഇവിടെ നിലനിൽക്കുന്നു അതിനാൽ ഈ പദം ഇവിടെ എന്താണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അത് നോക്കി നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും അപ്പോൾ ഈ സമവാക്യം എന്റെ സാധാരണ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്നോ അപ്ഡേറ്റ് സമവാക്യങ്ങളിൽ നിന്നോ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇത് J പദം പോലെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ ഇല്ല അല്ലേ ഇത് ഇവിടെയുള്ള ജെ പദം പോലെയാണ് അതിനാൽ എനിക്ക് ഇഷ്ടമുള്ള വേരിയബിളുകളിൽ എന്റെ അപ്ഡേറ്റ് സമവാക്യങ്ങളും കൂടാതെ ഒരു പദവും ഇവിടെയുണ്ട് അത് എനിക്ക് വൈദ്യുതി ആയി വ്യാഖ്യാനിക്കാൻ കഴിയും പക്ഷേ ഇത് ഇവിടെ പതന മണ്ഡലത്തിൻറെ മൂല്യമായി വരുന്നു അതിനാൽ ഈ രണ്ടാമത്തെ പദം ഇന്റർഫേസിലെ ഓരോ യീ സെല്ലിലും എനിക്ക് മൊത്തം ഫീൽഡ് സ്കാറ്റേർഡ് പ്ലസ് പതനവും പകരം പതന ഫീൽഡും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും അതെ പതന മണ്ഡലം അറിയാം വിശകലന രൂപം അറിയാം

അതിനാൽ എന്താണ് എനിക്ക് വൈദ്യുത മണ്ഡലത്തിലെ പതന ഫീൽഡ് അറിയാമെങ്കിൽ പതന വൈദ്യുത മണ്ഡലത്തിൻറെ ചുരുൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാന്തികക്ഷേത്രം ലഭിക്കും ഉദാഹരണത്തിന് റഡാർ പ്രശ്നം നിങ്ങൾക്കറിയാമോ പതന മണ്ഡലത്തിൻറെ ഏറ്റവും ലളിതമായ മാർഗ്ഗം ഏതെങ്കിലും കോണിൽ സഞ്ചരിക്കുന്ന ഒരു സമതല തരംഗമാണ് അതിനാൽ എന്നിവ അടച്ച രൂപത്തിൽ എഴുതാൻ നിസ്സാരമാണ് അതിനാൽ ഇവ ഇന്റർഫേസിൽ അവതരിപ്പിച്ചതായി അറിയാം അതിനാൽ അത്രയേയുള്ളൂ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ സമവാക്യവും എഴുതാം എന്നാൽ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മൂന്നാമത്തെ സമവാക്യം നോക്കിയാൽ എനിക്ക് മാറ്റത്തിന്റെ നിരക്കുണ്ടെന്നാണ് മാത്രമല്ല ഞാൻ അത് പ്രദേശം s ലാണ് എഴുതുന്നതെന്ന് പറയാം അതിനാൽ ഇടത് വശത്തെ ആദ്യ പദം എന്തെങ്കിലും പ്രശ്നമുണ്ടോ സമയവുമായി ബന്ധപ്പെട്ട് H ന്റെ മാറ്റത്തിന്റെ നിരക്ക് കാരണം ഇല്ല അല്ലേ അതിനാൽ ഞാൻ s ൽ ആണെങ്കിൽ വേരിയബിൾ s ആണ് അപ്പോൾ വലതുവശത്തെ ആദ്യ പദം അവിടെയാണ് ഞാൻ ഒരു മാറ്റം വരുത്തേണ്ടത് എന്നതിൽ എനിക്ക് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല അതിനാൽ ഇവിടെയാണ് പതന മണ്ഡലം ദൃശ്യമാകുന്നത് ഒന്ന് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമതായി ഇന്റർഫേസിൽ സ്കാറ്റേർഡ് ആയതോ ആകെക്കൂടി തിരഞ്ഞെടുക്കുകയോ ചെയ്യുക ഇന്റർഫേസിലെ സ്കാറ്റേർഡ് ഫീൽഡായി നിങ്ങൾ നിങ്ങളുടെ വേരിയബിൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ മൊത്തം ലഭിക്കുന്നതിന് നിങ്ങൾ പതനം ചേർക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക തിരിച്ചും അങ്ങനെതന്നെ അതിനാൽ നമുക്ക് പതന മണ്ഡലം ലഭിക്കുന്ന രണ്ട് വഴികളാണത് അതെ സമതലത്തിനുപുറത്ത് വിദ്യാർത്ഥി സമതലത്തിനുപുറത്ത് സാധാരണയായി ഇല്ല ഇത് ഒരു വൈദ്യുതധാരയായി വ്യാഖ്യാനിക്കപ്പെടുന്നു കാരണം ഇത് ഇല്ല ഒരു ഭൌതിക വൈദ്യുതധാരയായി കണക്കാക്കരുത് ഇത് ഒരു താരതമ്യം പോലെയാണ് ഇത് ഇവിടെ കഴിഞ്ഞാൽ ഈ സമവാക്യം നോക്കുക എനിക്ക് H ൽ കുറച്ച് പ്രദേശ വ്യത്യാസം ഉണ്ടായിരുന്നു E യിൽ കുറച്ച് സമയ ഡെറിവേറ്റീവും ഒരു അധിക പദവും ഉണ്ടായിരുന്നു അതിനാൽ ആ വ്യാഖ്യാനം ഇതുപോലെയാണ് അത് എങ്ങനെ ശരിയായി നടപ്പാക്കണമെന്ന് നമുക്കറിയാം അത് ഒരു വൈദ്യുതി ചേർക്കുന്നത് പോലെയാണ് ഈ തുല്യമായ വൈദ്യുതധാരയുടെ മൂല്യം എന്താണ് H ൻറെ സ്പേസ് ഡെറിവേറ്റീവ് അത്രയേയുള്ളൂ അത് ഒരു ഭൌതിക വൈദ്യുതി അല്ല